പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് II എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം പ്രൊജക്ഷൻ ഓഫ് സോളിഡിനെക്കുറിച്ചുള്ള 42 ാം പ്രഭാഷണത്തിലാണ് തിരശ്ചീന തലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ത്രികോണ പ്രിസം ലംബ തലത്തിലും തിരശ്ചീന തലത്തിലും ഇതിന്റെ വ്യൂസ് എങ്ങിനെ ആയിരിക്കും എന്ന് നോക്കാം ഉദാഹരണത്തിന് അപെക്സ് ഉം അക്ഷവും ഉള്ള ത്രികോണ പ്രിസമാണിത് ഇപ്പോൾ ഉദാഹരണത്തിന് ബേസ് അരികുകളിലൊന്ന് സമാന്തരമാണെങ്കിൽ ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ മുഴുവൻ പോയിന്റും ഈ ഒരൊറ്റ പോയിന്റ് അപെക്സ്ലേക്ക് ചുരുങ്ങുന്നു മാത്രമല്ല ഈ മൂന്ന് അരികുകളും ഈ സ്ഥാനത്ത് കാണാനാകും ഇവിടെ കണ്ടിന്യൂസ് ലൈൻസ് ഉള്ളതിന്റെ കാരണം അതാണ് ഇപ്പോൾ ടോപ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഒരു ത്രികോണം പോലെ കാണപ്പെടുന്നു ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ അരികുകളിൽ ഒന്ന് സമാന്തരവുമാണ് അങ്ങിനെ എങ്കിൽ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ദൃശ്യമാകേണ്ടതാണ് ഇത് സമാന്തരമായതു കൊണ്ട് രേഖകൾ ഈ പോയിന്റ്ൽ ഇന്റർസെക്ക്ട് ചെയ്യുന്നു ഈ മുഴുവൻ രേഖയും എഡ്ജ് ലൈനിൽ മാപ്പുചെയ്യുന്നു അതിനാൽ എല്ലായ്പ്പോഴും ആ രേഖയിലൂടെ മാപ്പുചെയ്യുന്നു നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂ ഒരു തുടർച്ചയായ രേഖയാണ് ഈ മുഴുവൻ രേഖയും അപെക്സ് ലേക്ക് പോകുന്നു കൂടാതെ ഈ മുഴുവൻ ഉപരിതലവും മാപ്പ് ചെയ്യുന്നു അതിനാൽ ത്രികോണം ഒരു ഉപരിതലമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ മുഴുവൻ ഉപരിതലവും മറ്റൊരു ഉപരിതലത്തിലേക്ക് മാപ്പ് ചെയ്യുന്നു ഉപരിതലത്തിനു പേര് നൽകൽ എല്ലായ്പ്പോഴും ടോപ് വ്യൂവിൽ നിന്നായിരിക്കും അവിടെ ഡാഷ് ' ഇല്ലാതെ a b c ഉണ്ടാകും ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ab c ഉണ്ട് നമുക്ക് ഇതിന്റെ ബേസ് അരികുകളിൽ ഒന്ന് തിരിക്കാം നമുക്ക് ഒരു ചെരിഞ്ഞ പ്രിസം ഉണ്ടെന്നിരിക്കട്ടെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പോയിന്റ് അവിടെ മാപ്പ് ചെയ്യുന്നു b c കൂട്ടിമുട്ടുന്നതിനാൽ നമുക്ക് b c o ലഭിക്കുന്നു അതിനാൽ അവിടെ നിന്ന് നമുക്ക് ഇവയെ തമ്മിൽ യോജിപ്പിക്കാം ഒന്നിലധികം പോയിന്റുകൾ ഉണ്ട് ഒന്നിലധികം പോയിന്റുകൾ ഉണ്ടെങ്കിൽ പോയിന്റുകളിൽ ഒന്ന് പുറത്ത് കാണിക്കും പിൻവശത്തുള്ള അദൃശ്യ പോയിൻറ് അല്ലെങ്കിൽ മാപ്പ് പോയിൻറ് അത് പരാന്തിസിസിനുള്ളിൽ കാണിക്കും അതിനാൽ ഇവിടെ നമ്മൾ ഈ വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ b പോയിന്റ് ദൃശ്യമാകും ഫ്രണ്ട് വ്യൂവിൽ അതാണ് b എന്നാൽ c പോയിന്റ് അതിന്റെ പുറകിലായിരിക്കും അദൃശ്യമാണ് അതിനാൽ പരാൻതീസിസിനുള്ളിൽ കാണിക്കും അതുപോലെ ടോപ് വ്യൂവിലെ o പോയിന്റും o' പോയിന്റും അദൃശ്യമാണ് കാരണം അത് ആ പ്രിസത്തിന്റെ താഴേക്ക് പോയി o1 ഇൽ എത്തിച്ചേരുന്നു ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ o ദൃശ്യമാകും എന്നാൽ o1 അദൃശ്യമാണ് അതുപോലെ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്നോ 0 പോയിൻറ് o' ലേക്ക് പോകുന്നു ഫ്രണ്ട് വ്യൂവിൽ o1' അദൃശ്യമാണ് അതിനാൽ നമ്മൾ അതിനെ പരാൻതീസിസിനുള്ളിൽ കാണിക്കും ആ ആക്സിസ് ഡോട്ടഡ് ലൈൻസ് ഇട്ടു മാപ്പ് ചെയുന്നു ഇപ്പോൾ ഈ b പോയിന്റും c പോയിന്റും യോജിക്കുന്നതിനുപകരം ചെറുതായി ഒരു ഓഫ്സെറ്റ് ഉണ്ടാക്കുക അതിനായി ഈ ദിശയിൽ ഇത് ചെറുതായി തിരിക്കുക അപ്പോൾ b ദൃശ്യമാകും അത് b യിൽ നിന്നും തുടങ്ങി മുകളിലത്തെ അപെക്സ് ൽ ചേരുന്ന ഒരു രേഖയുണ്ട് അത് ഇതാണ് ഈ സാഹചര്യത്തിൽ c bc ഉപരിതലവും ദൃശ്യമാണ് അതിനാൽ നമുക്ക് ഈ ഉപരിതലമുണ്ടാകും ഫ്രണ്ട് വ്യൂവിൽ ഈ ഉപരിതലം ദൃശ്യമാകും അതാണ് a o b ഉപരിതലം ഈ o o1 o o1 o1 അദൃശ്യമാണ് എന്നാൽ o ദൃശ്യമാണ് ഇത് ഡാഷ് ഡോട്ട് ലൈൻ ഉപയോഗിച്ച് നമ്മൾ കാണിക്കുന്നതിനുള്ള കാരണം ഇത് ചെറുതായി ചരിഞ്ഞിരിക്കുന്നു എന്നത് കൊണ്ടാണ് അതിനാൽ സ്വാഭാവികമായും ഈ രേഖ ചേരാൻ പോകുന്നതെന്തും ചരിവുള്ളതായിരിക്കും ഇപ്പോൾ ഈ ബേസ് അരിക് ലംബ തലത്തിനു സമാന്തരമായും ലംബ തലത്തിനു അടുത്തും ആണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഈ ബേസ് അരിക് ലംബ തലത്തിന് സമാന്തരമാണെങ്കിലും തിരശ്ചീന തലത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ ഇത് അതിനടുത്തായിരിക്കും ഈ സാഹചര്യമാണെങ്കിൽ നമുക്ക് a b c എന്നിവ ആ രീതിയിൽ ആയിരിക്കും നമ്മൾ രേഖകൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് a ലേക്ക് പോകുന്നു ഇത് b യിലേക്കും o o' ലേക്കും പോകുന്നു അങ്ങനെ ഈ ഉപരിതലം മുഴുവൻ ദൃശ്യമാകും നമുക്ക് ഈ പുറകുവശത്തെ രേഖകൾ കാണാൻ കഴിയില്ല അതിനാൽ നമുക്ക് ഡാഷ് ചെയ്ത രേഖകളിൽ കൂടി കാണിക്കാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ o o1 ഡാഷ് രേഖകളായിരിക്കണം പക്ഷേ വസ്തുവിൻറെ അളവുകൾ ഈ കേസിൽ ആ അക്ഷത്തേക്കാൾ പ്രധാനമാണ് അതിനാൽ c മുതൽ o വരെ അദൃശ്യമായ ഏത് രേഖയും ആ ഡാഷ് ലൈനുകൾ ഉപയോഗിച്ച് നമ്മൾ കാണിക്കുന്നു അതിനാൽ നമ്മൾ ആ അക്ഷം കാണിക്കുന്നില്ല മാത്രമല്ല ഈ അദൃശ്യ അളവുകൾ അക്ഷത്തേക്കാൾ കൂടുതൽ മുൻഗണന നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ഒരു സിലിണ്ടർ തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു അതിന്റെ ജനറേറ്ററും തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഈ ലംബ തലവും തിരശ്ചീന തലവും ഉണ്ട് ഇതാണ് തിരശ്ചീന തലം നമ്മുടെ സിലിണ്ടർ ഒരുപക്ഷേ ആ രീതിയിൽ വിശ്രമിക്കുന്നു അത് ഈ പോയിന്റുകളിൽ സ്പർശിക്കുന്നതായി നമുക്ക് കാണാം അവിടെ ചേരുന്ന ലൈൻ അത് ശേഷിക്കുന്ന പോയിന്റുകളിൽ മാത്രം സ്പർശിക്കുന്നു അത് ജനറേറ്ററിൽ സ്പർശിക്കില്ല അതിനാൽ തിരശ്ചീന തലത്തിന്റെ ആ ദിശയിലേക്ക് നോക്കുമ്പോൾ അത് ദീർഘചതുരം പോലെ കാണും എന്നാൽ ഇതാകട്ടെ സർക്കിൾലേക്ക് മാപ്പ് ചെയ്യുന്നു ആ രേഖയിൽ ടോപ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു പോയിന്റും അക്ഷം എല്ലായ്പ്പോഴും ഡാഷ് ലൈനും ആയിരിക്കും നിങ്ങൾക്ക് o പോയിന്റും o1 പോയിന്റും o o 1 പോയിന്റും ഉണ്ടാകും അതിനാൽ ഇവിടെ അവ o' ഉം o 1' ഉം ആയിരിക്കും Refer Slide Time 1006 ഇപ്പോൾ ഒരു കോൺ ഒരു തിരശ്ചീന തലത്തിൽ അതിന്റെ ജനറേറ്ററുകളിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ടോപ് വ്യൂവിൽ അത് ഒരു ത്രികോണമായിരിക്കും നിങ്ങൾ ഈ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ അത് ചെരിഞ്ഞ ഒരു കോണാണെങ്കിലും ഈ പ്രൊജക്ഷൻ കാരണം ഈ സർക്കിളിലേക്ക് മാപ്പുചെയ്ത എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതൊരു റൈറ്റ് സർക്കുലർ കോൺ ആണ് അത് കൂടി കൊണ്ടാണ് അങ്ങിനെ കാണാൻ സാധിക്കുന്നത് ഈ പോയിന്റ് ഒരു തിരശ്ചീന തലത്തിന്റെ ബേസിൽ ആണ് അതായത് ലംബ ദിശയിൽ ചെരിഞ്ഞ മുഴുവൻ ലൈൻ ജനറേറ്റർ ലൈനുകളും ആ ദിശയിലേക്ക് ഫ്ലിപ്പുചെയ്യുമ്പോൾ ആ പോയിന്റുമായി പൂർണ്ണമായും യോജിക്കുന്നു നമ്മൾ ലംബ തലത്തിനു ലംബം ആയി ഒരു പ്രിസം നോക്കുകയാണെങ്കിൽ പ്രിസത്തിന്റെ അക്ഷം ലംബ തലത്തിനു ലംബം ആണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രിസം പോലുള്ള എന്തെങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു ബോക്സ് ആകാം ഇത്തരത്തിലുള്ള പ്രിസമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആക്സിസ് ലംബ തലത്തിനു ലംബം ആണ് അതിനാൽ നമുക്കു ഇവിടെ മാപ്പ് ചെയുമ്പോൾ ലഭിക്കുന്നത് ഒരു ദീർഘചതുരമാണ് വ്യത്യസ്ത പ്രിസങ്ങൾ വ്യത്യസ്ത തരം പ്രൊജക്ഷനുകൾ നൽകുന്നു ഉദാഹരണത്തിന് നമുക്ക് പെന്റഗൺ പ്രിസം പരിഗണിക്കാം അതിന്റെ ആക്സിസ് ലംബ തലത്തിനു ലംബം ആണ് അതിനർത്ഥം നമ്മൾ വ്യൂസ് നോക്കുമ്പോൾ പെന്റഗൺ ലംബ തലത്തിൽ മാത്രമേ ദൃശ്യമാകൂ ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ പോയിന്റുകൾ അരികുകൾ പോലെ മാപ്പ് ചെയ്യുന്നു അതിനാൽ ടോപ് വ്യൂവിൽ ഇത് ഒരു കണ്ടിന്യൂസ് ലൈൻ പോലെ കാണപ്പെടുന്നു ഈ പ്രോജക്ഷൻ മാപ്പിൽ അരികുകൾ ദൃശ്യം അല്ലാത്ത പോയ്ന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നതു അതിനാൽ ഡാഷ് ചെയ്ത രേഖകളിലൂടെ ഇത് കാണിച്ചിരിക്കുന്നു ഇനി ആക്സിസ് ലംബ തലത്തിനു ലംബം ആണ് എന്നാൽ തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുകയല്ല മറിച്ചു ചെറുതായി ചെരിഞ്ഞാണ് എങ്കിൽ അതിനെ ആ ദിശയിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കു ആ പോയ്ന്റ്സ് ലഭിക്കും ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഒരു അരിക് ആയി നമുക്ക് മനസ്സിലാക്കാനാകും ഈ രേഖകൾ തുടർച്ചയായ രേഖകളായി നമുക്ക് കാണാനാകും ഈ അരിക് അദൃശ്യമാണ് അതിനാൽ ഡാഷ് ചെയ്ത രേഖകളിലൂടെ നമ്മൾ ഇത് കാണിക്കുന്നു പ്രിസം ആക്സിസ് ലംബ തലത്തിനു ലംബം ആയിരിക്കുകയും അതിന്റെ അരികുകളിൽ ഒന്നിൽ റസ്റ്റ് ചെയുകയും ആണെങ്കിൽ അതിന്റെ ഈ ഫെയ്സ് തിരശ്ചീന തലത്തിനു സമാന്തരമായി നമുക്ക് കാണാൻ സാധിക്കും അത്തരം സന്ദർഭങ്ങളിൽ ചില ലൈൻസ് വിസിബിൾ ആയിരിക്കും ചിലതു ഇൻവിസിബിൾ ആയിരിക്കും ഇത് ഒരു അദൃശ്യ രേഖയാണ് അതിനാൽ അദൃശ്യമായ രേഖ ഡാഷ് ചെയ്ത വരയാണ് ഈ ഉപരിതലം മുഴുവൻ ഈ വസ്തു ആയി നമ്മൾ കാണും അതിനാൽ ഇത് ഒരു ഫിൽ ചെയ്ത ഉപരിതലമാണ് അതുപോലെ തന്നെ ഈ മുഴുവൻ ഉപരിതലവും ഫിൽ ചെയ്ത മറ്റൊരു വസ്തു ആയി കാണും ഒരു പ്രിസം നമുക്ക് പ്രൊജക്ഷനുകൾ നൽകുന്ന രീതിയാണിത് ഉദാഹരണത്തിന് ആ പ്രിസത്തിന്റെ ഒരു വശത്തെ വ്യൂ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രേഖകൾ അവിടെ മാപ്പ് ചെയ്യുന്നു ഇത് ഒരു ദീർഘചതുരത്തിലേക്ക് പോകുന്നു ഇത് കൃത്യമായി മിഡ്വേയിൽ സ്ഥിതിചെയ്യുന്നതിനാൽ നമ്മൾ ആ രേഖ കാണും അതിനാൽ ഈ രേഖ ഒരു അക്ഷം പോലെയാകും ഇതാണ് നമ്മുടെ ലെഫ്റ് ഡിറക്ഷൻ സൈഡ് ലുക്സ് ഇപ്പോൾ നമുക്ക് ഒരു പിരമിഡ് എടുക്കാം അതിന്റെ ആക്സിസ് ലംബ തലത്തിനു ലംബം ആണ് അതിനാൽ പിരമിഡ് ഒരു പെന്റഗണൽ പിരമിഡാണ് ഈ പോയിന്റുകളെല്ലാം അവിടെ ബന്ധിപ്പിക്കാൻ പോകുന്നു അതിന്റെ ആക്സിസ് ലംബ തലത്തിനു ലംബം ആണ് കൂടാതെ ഒരു ബേസ് വിശ്രമിക്കുന്നു അതിനാൽ ഒന്നാമതായി ആ പെന്റഗൺ ഫ്രണ്ട് വ്യൂവിൽ നിർമ്മിക്കുക ഇത് ഫ്രണ്ട് വ്യൂ ആണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ അപ്പെക്സ് കോൺ 1 മുഴുവനും ആ സ്ഥാനത്തേക്ക് മാപ്പുചെയ്തു ഈ ചരിഞ്ഞ അരികുകളെല്ലാം ഈ സ്ഥാനത്തേക്ക് മാപ്പ് ചെയ്യുന്നു ടോപ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അരികുകൾ ആ രീതിയിൽ കാണും ഇപ്പോൾ ഈ ഉപരിതലം ദൃശ്യമാണ് ഈ രേഖയും ദൃശ്യമാണ് അതേസമയം ഈ രേഖകൾ അദൃശ്യമാണ് അതായത് ചരിഞ്ഞ ഉപരിതലം മുഴുവൻ ആ ദിശയിൽ വരുന്നു അതിനാൽ ആ പോയിന്റുകൾ ഡാഷ് ചെയ്ത രേഖകളിലൂടെ കാണിക്കും അതുപോലെ ബേസ് വ്യത്യസ്ത ദിശകളിലേക്ക് ചരിഞ്ഞതാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഒരു വ്യൂ ഉണ്ടായിരിക്കും ഇത് ഒരു കോണിലൂടെ തിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവൻ ബേസ് ആണ് ലംബ തലത്തിനു ലംബം ആയിരിക്കും അതിനാൽ പോയിന്റ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ റൊട്ടേട്ടു ചെയുമ്പോൾ ഈ ലൈൻ ദൃശ്യമാകും ആ അരിക് അതിനോട് യോജിക്കുന്നതായി നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നു ഒപ്പം c അരിക് c മുതൽ o അരിക് വരെയുള്ളവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ b മുതൽ o അരിക് വരെ നമുക്ക് ടോപ് വ്യൂവിൽ നിന്ന് കാണാൻ സാധിക്കും അതിനാൽ മറുവശത്തുള്ള ഈ പ്രൊജക്ഷനുകളെല്ലാം ഈ സ്ഥാനത്തേക്ക് മാപ്പ് ചെയ്യും നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ a മുതൽ a d മുതൽ d c മുതൽ c b മുതൽ b' കൂടാതെ അതിന്റെ താഴെ ഉള്ളത് e ദൃശ്യമാകില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പരാൻതീസിസിൽ കാണിക്കുന്നത് അതുപോലെ ഈ അരിക് e' പോയിന്റ് ആണ് തിരശ്ചീന തലത്തിൽ അത് വിശ്രമിക്കുകയാണെങ്കിൽ ടോപ് വ്യൂവിൽ നമ്മൾ abcd പോയിന്റുകൾ കാണാൻ സാധിക്കും അവയെല്ലാം ടോപ് വ്യൂവും പോയിന്റും ആയി യോജിപ്പിച്ചിക്കും കൂടാതെ ഇവിടെ b o ലൈനും c o ലൈനും എപ്പോഴും ദൃശ്യം ആയിരിക്കും അതിനാൽ നമുക്ക് തുടർച്ചയായ ലൈനുകൾ വരയ്ക്കാൻ സാധിക്കും അദൃശ്യം ആയിട്ടുള്ളത് o e' ആണ് ഡാഷ് ചെയ്ത രേഖകളിലൂടെ ഇത് കാണിക്കുന്നു അതിനാൽ വളരെ നന്ദി അടുത്ത ക്ലാസ്സിൽ സോളിഡുകളുടെ പ്രൊജക്ഷനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം